ഡിസാസ്റ്റർ റിക്കവറി ആൻഡ് ബിൽഡ് ബാക് ബെറ്റർ എന്ന കോഴ്സിലേക്ക് സ്വാഗതം അതിനാൽ ഇന്ന് ഈ മുഴുവൻ കോഴ്സിലേയും ഞങ്ങളുടെ അവസാന പ്രഭാഷണമായിരിക്കും ഇത് യാത്രയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സംഗ്രഹിക്കാൻ പോകുന്നു അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് എന്താണ് നൽകിയത് അതിന്റെ സംഗ്രഹം എന്താണ് ഈ ഓരോ മൊഡ്യൂളുകളുടെയും സാരാംശം എന്താണ് ഞങ്ങൾ എന്താണ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾക്കറിയാം അങ്ങനെയാണ് നിങ്ങൾ നിഗമനത്തിലെത്തുന്നത് അതിനാൽ ഇത് അവസാനത്തെ പ്രഭാഷണമായിരിക്കും ഒന്നാമതായി ഈ കോഴ്സ് ക്ഷമയോടെ എടുക്കുകയും എല്ലാ അസൈൻമെന്റുകളും നൽകുകയും ഞങ്ങളുടെ എല്ലാ പ്രഭാഷണങ്ങളും ശ്രദ്ധിക്കുകയും ചെയ്ത എല്ലാ പങ്കാളികൾക്കും ഞാൻ നന്ദി പറയുന്നു പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഇടയിൽ ഞങ്ങളുമായി ഇടപഴകാനും നിങ്ങൾക്കറിയാം അതിനാൽ ഞാനും സുഭജ്യോതി സമദ്ദറും ഈ അവസരം ശരിക്കും ഉപയോഗിച്ചു ഈ കോഴ്സ് വളരെ ഫലപ്രദമായ ഒരു കോഴ്സ് ആക്കുന്നതിന് ഞങ്ങളോട് ശരിക്കും സഹകരിച്ചുഅദ്ദേഹത്തിന്റെ രസകരമായ എല്ലാ ചിത്രീകരണങ്ങളും വിശദീകരണങ്ങളും അതിന്റെ സൈദ്ധാന്തിക ഗ്രൈൻഡിംഗും ഉപയോഗിച്ചു എല്ലാ പിന്തുണയും കൂടാതെ ഈ കോഴ്സ് വളരെ ഫലപ്രദമല്ല എന്ന് നിങ്ങൾക്കറിയാം എന്നാൽ ഞങ്ങൾ കവർ ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും ഒരു തരം സംഗ്രഹം ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നു ഒന്നാമതായി ഈ കോഴ്സ് ഡിസാസ്റ്റർ റിക്കവറി ആൻഡ് ബിൽഡ് ബാക് ബെറ്റർ ഞങ്ങൾ ആസൂത്രണം ചെയ്തു അതിനെ 8 മൊഡ്യൂളുകൾ ആയി തിരിച്ചു ഡിസാസ്റ്റർ റിസ്ക് റിക്കവറി ആൻഡ് ബിൽഡ് ബാക്ക് എന്നിവയെ കുറിച്ചുള്ള ആമുഖമായിരുന്നു ആദ്യ മൊഡ്യൂൾ അതിനാൽ ഇത് യഥാർത്ഥത്തിൽ സൈദ്ധാന്തിക ധാരണ നൽകുന്നു എന്താണ് അപകടസാധ്യത എന്താണ് ഒരു അപകടം എന്ന് നിങ്ങൾക്കറിയാം ഒപ്പം എന്താണ് അപകടസാധ്യത എന്താണ് യഥാർത്ഥത്തിൽ ബിൽഡ് ബാക്ക് ബെറ്റർ എന്താണ് കാഴ്ചപ്പാടുകൾ മികച്ച രീതിയിൽ വീണ്ടെടുക്കുന്നതിനുള്ള വ്യത്യസ്ത വീക്ഷണങ്ങൾ അതിനാൽ ആദ്യത്തെ മൊഡ്യൂൾ ഈ രീതിയിൽ ഞങ്ങൾ രൂപകൽപ്പന ചെയ്തു നൽകുന്നു കാരണം വ്യത്യസ്ത വിദ്യാർത്ഥി പങ്കാളികൾക്ക് അത് അവരെ അഭിലഷണീയമാക്കണം ഫാക്കൽറ്റികളായ ധാരാളം ആളുകൾ ഉണ്ടാകുമോ വിദ്യാർത്ഥികളായ നിരവധി ആളുകളുണ്ട് ബാച്ചിലർമാരിൽ നിന്നോ മാസ്റ്റേഴ്സിൽ നിന്നോ വാസ്തുവിദ്യാ പശ്ചാത്തലം ഇല്ലാത്തവരുമായി ധാരാളം ആളുകൾ ഉണ്ട് എന്നാൽ ആദ്യത്തെ അടിസ്ഥാന മൊഡ്യൂൾ നിങ്ങൾക്ക് പദാവലിയുടെ അടിസ്ഥാനപരമായ ധാരണകൾ നൽകുന്നു റിസ്ക് വാൽനറബിലിറ്റി ഹസാർഡ്സ് ഡിസാസ്റ്റർ ഡെവലപ്മെന്റ് ആൻഡ് ബിൽഡ് ബാക് ബെറ്റർ എന്നിങ്ങനെ അടിസ്ഥാന കാര്യങ്ങൾ നൽകുന്നു എന്നാൽ രണ്ടാമത്തെ മൊഡ്യൂൾ ഞങ്ങൾ എന്താണ് ചെയ്തത് ഒരാൾക്ക് എങ്ങനെ ദുർബലത മനസ്സിലാക്കാം എന്നതാണ് കൂടാതെ നിങ്ങൾക്ക് അറിയാവുന്ന സംസ്കാരവും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സാംസ്കാരിക മാനം ദുർബലമായ വശത്തേക്ക് എങ്ങനെ മാറുന്നു സംസ്കാരം എങ്ങനെ അപകടത്തിലാകുന്നുസംസ്കാരം അപകടത്തിലാണ് അതിനാൽ അപകടസാധ്യത മാപ്പുചെയ്യുന്നതിനുള്ള വിവിധ ഉപകരണങ്ങളെക്കുറിച്ചും രീതികളെക്കുറിച്ചും പ്രത്യേകിച്ച് സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു അതിനാൽ സൈദ്ധാന്തിക ധാരണയെക്കുറിച്ച് നിങ്ങൾക്ക് പരിചിതമായിക്കഴിഞ്ഞാൽ രണ്ടാമത്തേത് നിങ്ങൾക്ക് അതിന്റെ ചില മാപ്പിംഗ് ടെക്നിക്കുകൾ പരിചയപ്പെടുകയും വ്യത്യസ്ത വെല്ലുവിളി നിറഞ്ഞ സന്ദർഭങ്ങളുമായി പരിചിതമാവുകയും ചെയ്യും അതിനാൽ ഞങ്ങൾ സംഘടനാ സജ്ജീകരണത്തെക്കുറിച്ചും ബിൽറ്റ് എൻവയോൺമെന്റ് പ്രൊഫഷനുകളുടെ പങ്കിനെക്കുറിച്ചും ചർച്ചകളിലേക്ക് നീങ്ങി അതിനാൽ ഒരു സ്ഥാപന സജ്ജീകരണത്തിലെ ശ്രേണികൾ ചട്ടക്കൂടുകൾ മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന വിവിധ സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണെന്നും ആർക്കിടെക്റ്റിന്റെ റോൾ എന്താണോ എന്നതിലും നിർമ്മിത പരിസ്ഥിതി പ്രൊഫഷണലുകളുടെ പങ്ക് എന്താണെന്നും ഞങ്ങൾ ഇവിടെ സംസാരിച്ചു ഒരു എഞ്ചിനീയറുടെ റോൾ ഒരു സർവേയറുടെ റോൾ എന്താണ് ഒരു പ്ലാനറുടെ റോൾ എന്താണ് എന്നിവയെക്കുറിച്ചു സംസാരിച്ചു അതിനാൽ ഡിആർആറിന്റെ മുഴുവൻ ഓർഗനൈസേഷണൽ സെറ്റപ്പും ഒരുമിച്ച് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചു തുടർന്ന് ദുരന്തത്തിനു മുമ്പുള്ള സമയക്രമ പ്രക്രിയയുമായി ഞങ്ങൾ ദുരന്താനന്തര പ്രക്രിയയിലേക്ക് നീങ്ങി അതിനാൽ ഒരിക്കൽ നിങ്ങൾക്ക് ഈ 3 മൊഡ്യൂളുകളുടെ ഒരു സൈദ്ധാന്തിക പശ്ചാത്തലമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സിദ്ധാന്തവും ദുർബലതയെക്കുറിച്ചുള്ള ചില ഉപകരണങ്ങളും അപകടസാധ്യത മനസ്സിലാക്കുകയും സന്ദർഭം ഉപയോഗിച്ച്വിവിധ ഓർഗനൈസേഷനുകളുടെ സജ്ജീകരണം ഭരണ സജ്ജീകരണങ്ങൾ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ നൽകാൻ തുടർന്ന് ഞങ്ങൾ ശ്രമിക്കുന്നു ഇവിടെ നിന്ന് ദുരന്തത്തിന് മുമ്പുള്ള ഘട്ടത്തിൽ നിന്ന് ദുരന്തത്തിന് ശേഷമുള്ള ഘട്ടത്തിലേക്ക് ഞങ്ങൾ നീങ്ങി അതിനാൽ ഇവിടെ ദുരന്തസാധ്യത കുറയ്ക്കുന്നതിനുള്ള നാലാമത്തെ മൊഡ്യൂൾ കവറുകളും ഒരാൾക്ക് എങ്ങനെ തയ്യാറാകാമെന്ന് നിങ്ങൾക്കറിയാം ഇവിടെയാണ് ഞങ്ങൾ തയ്യാറെടുപ്പ് പരിപാടികളെക്കുറിച്ചും കൂടാതെ ലോകമെമ്പാടുമുള്ള വിവിധ തത്സമയ കേസ് പഠനങ്ങളും ഉൾപ്പെടെ മുഴുവൻ കോഴ്സും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഈ കോഴ്സിന്റെ ഒരു നല്ല കാര്യം ഞങ്ങൾ യഥാർത്ഥത്തിൽ സിദ്ധാന്തം കൊണ്ടുവന്നു എന്നതാണ് സമാന്തരമായി ഞങ്ങൾ പരസ്പരം പഠിക്കാൻ കഴിയുന്ന തരത്തിൽ ലോകമെമ്പാടുമുള്ള വിവിധ കേസുകളെ കുറിച്ച് ചർച്ച ചെയ്തു ഇത് ഇന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മാത്രമല്ല പെറു കൊളംബിയ തുർക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ള പഠനങ്ങൾ ഉള്ളതിനാൽ ലോകമെമ്പാടുമുള്ള വിവിധ കേസുകൾ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദുരന്തം കഴിഞ്ഞയുടനെ റിലീഫ് റിക്കവറി ട്രാന്സിഷൻ എന്നിവ ഉണ്ടാകുമെന്നു നിങ്ങൾക്കറിയാം അപ്പോൾ എന്താണ് പരിവർത്തന ഘട്ടം അതിന്റെ ആശ്വാസ ഘട്ടം താൽക്കാലിക ഭവനം നൽകൽ എന്നിവയും നമ്മൾ അറിയേണ്ടതും ചെയ്യേണ്ടതുമാണ് അതിനാൽ കെനിയൻ കേസ് പഠനങ്ങളെക്കുറിച്ചും മറ്റ് കേസ് പഠനങ്ങളെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്തത് അവിടെയാണ് പിന്നെ വലിയ രീതിയിൽ പുനർനിർമ്മാണത്തെക്കുറിച്ചും ദുരന്താനന്തര പുനർനിർമ്മാണത്തെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്തതായി ഞാൻ കരുതുന്നു അവിടെയാണ് എന്റെ സ്വന്തം പ്രദേശമായ സുനാമി വീണ്ടെടുക്കൽ പരിപാടികൾ എന്റെ സ്വന്തം പ്രദേശമായ കിരുണയുടെ പുനർനിർമ്മാണത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ചചെയ്തു അതിന്റെ സാംസ്കാരിക ഭാഗവും ഞങ്ങൾ ചർച്ച ചെയ്തു പെറു എൽ സാൽവഡോർ കൊളംബിയ എന്നീ കാപ്പി കർഷക സമൂഹങ്ങൾ എന്നിവിടങ്ങളിൽ മറ്റ് വശങ്ങളും ഉണ്ട് അവർ എങ്ങനെ പ്രവർത്തിച്ചു എന്നതും തുർക്കിയിലെ പോലെ ചെറിയ പ്രവർത്തകർ അവിടെ വലിയ മാറ്റമുണ്ടാക്കുന്നതെങ്ങനെ എന്നതും കാണാം അങ്ങനെ ഞങ്ങൾ അതിൽ പലതരം കേസുകൾ കൊണ്ടുവന്നു തുടർന്ന് ഞങ്ങൾ കൊണ്ടുവന്ന ഏഴാമത്തെ മൊഡ്യൂളിൽ ആഗോള മൂല്യനിർണ്ണയ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് അറിയാവുന്ന മൂല്യനിർണ്ണയങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചത് ഓരോ റിപ്പോർട്ടിലും ഒരാൾ അത് നോക്കേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം അവർക്ക് യഥാർത്ഥത്തിൽ എങ്ങനെയുണ്ട് ആ മൂല്യനിർണ്ണയത്തിൽ അവരുടെ ശ്രദ്ധ എന്താണ് എന്ത് മെതോഡിയോളജിയാണ് അവർ സ്വീകരിച്ചത് അതിൽ അവരുടെ പ്രധാന കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് അങ്ങനെയാണ് ഞങ്ങൾ ചർച്ച ചെയ്തത് കൂടാതെ നിങ്ങൾക്ക് അറിയാവുന്ന മാർഗ്ഗനിർദ്ദേശങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ചചെയ്തു മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് നിർമ്മിത പരിസ്ഥിതി പ്രൊഫഷനുകൾക്ക് മാർഗ്ഗനിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്താണ് നിലവിലുള്ളത് അവയുടെ അഭാവം എന്താണ് കൂടാതെ ഈ കാര്യങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്തു തുടർന്ന് ഞങ്ങൾ ഇവിടെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും ചർച്ച ചെയ്തു അതിന്റെ സ്കെയിൽ എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാം കാരണം ഓരോ വിലയിരുത്തലും ഒരു പ്രത്യേക സ്കെയിലിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നാൽ വ്യത്യസ്ത സ്കെയിലുകൾ എങ്ങനെ സംയോജിപ്പിക്കണം എന്നതും ഞങ്ങൾ ചർച്ച ചെയ്തു അവസാന മൊഡ്യൂളിൽ ആശയവിനിമയം പീപ്പിൾ സെന്റർ വികസനത്തിനായുള്ള പങ്കാളിത്തം വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു അതിനാൽ ആശയവിനിമയം വിദ്യാഭ്യാസം പെഡഗോഗി എന്നിവയും ചിത്രത്തിലേക്ക് വരുന്നത് ഇവിടെയാണ് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ വാസ്തുവിദ്യാ വിദ്യാഭ്യാസത്തിൽ ഡിആർആറിനെ കുറിച്ച് പരിചിതമായിരുന്നില്ല എന്നാൽ ഇവിടെയാണ് വാസ്തുവിദ്യാ വിദ്യാഭ്യാസത്തിന്റെയും ദുരന്തസാധ്യത കുറയ്ക്കുന്നതിന്റെയും ദാർശനിക വീക്ഷണങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചത് അതിനാൽ ഇത് ഡിസാസ്റ്റർ റിക്കവറി ആൻഡ് ബിൽഡ് ബാക് ബെറ്റർ ഹ്രസ്വ അസ്ഥികൂടമാണ് നിങ്ങൾ മുഴുവൻ കോഴ്സും നോക്കുകയാണെങ്കിൽ നിങ്ങൾ സിദ്ധാന്തം കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട കീവേഡുകളിലൊന്ന് ഞങ്ങൾ ആദ്യ മൊഡ്യൂളുകളിൽ വ്യക്തമായി ചർച്ച ചെയ്തതാണ് തത്സമയ കേസുകൾക്കൊപ്പം മറ്റ് മൊഡ്യൂളുകളിലും എല്ലായ്പ്പോഴും ചർച്ചചെയ്യുന്നു അതിലെ സൈദ്ധാന്തിക വശങ്ങളെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്യുന്നു വ്യത്യസ്ത പരിശീലന സജ്ജീകരണങ്ങൾ എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് പരിശീലിക്കുക അവിടെയാണ് അവർ വ്യത്യസ്ത പ്ലാനുകളും വ്യത്യസ്ത ഡിസൈനുകളും അത് വികസിപ്പിച്ചെടുത്ത മാർഗ്ഗനിർദ്ദേശങ്ങളും നിർമ്മിക്കുന്നത് കൂടാതെ ഞങ്ങൾ PAHAL നെ കുറിച്ച് ചർച്ച ചെയ്തു സുനാമി നിയന്ത്രണങ്ങളെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു GSDMA നിയന്ത്രണങ്ങളുമായി ഞങ്ങൾ ചർച്ച ചെയ്തു അപ്പോൾ മൂന്നാമത്തെ വശം ഞങ്ങൾ അതിന്റെ മാനേജ്മെന്റ് ഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ഒരു ഭരണ വശം പങ്കാളിത്തം സഹകരണം ഏകോപനം എന്നിവ ഏതാണ് അവസാന ഭാഗം വിലയിരുത്തലിനെയും ആശയവിനിമയത്തെയും കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നു പഠനങ്ങൾ എങ്ങനെ ആശയവിനിമയം നടത്തി എല്ലാം എങ്ങനെ അത് അതിന്റെ ഒരു വശമാണ് കൂടാതെ പ്രോജക്റ്റ് സമയത്തോ പ്രോജക്റ്റിന് മുമ്പോ ആശയവിനിമയം എങ്ങനെ നടത്തി ഈ റിസ്ക് ആശയവിനിമയം എങ്ങനെയായിരുന്നു അതിനാൽ ഇവയാണ് പ്രധാന വാക്കുകൾ പിന്നെ വിദ്യാഭ്യാസം നമ്മൾ എങ്ങനെ ചെയ്യണം ബിൽറ്റ് എൻവയോൺമെന്റ് എഡ്യൂക്കേഷനിൽ ഡിആർആർ എങ്ങനെ പഠിപ്പിക്കാം അതിനാൽ ഞാൻ ഒരുമിച്ച് ചേർക്കാൻ ശ്രമിച്ച ചില കീവേഡുകൾ ഇവയാണ് അതോടൊപ്പം ശുഭോ ഓരോ ചെറിയ ആശയവും കാണിച്ചിരിക്കുന്ന വളരെ രസകരമായ ഒരു ഡയഗ്രമാറ്റിക് ചിത്രീകരണങ്ങൾ നിങ്ങൾ കണ്ടെത്തിയേക്കാം അവൻ വളരെ ലളിതമായി വിശദീകരിച്ചത് എങ്ങനെ അതിനാൽ നിങ്ങൾ RHxV യെ കുറിച്ചുള്ള ചർച്ചകളിലൂടെയാണ് ആരംഭിച്ചത് ഒരു പ്രകൃതിയെക്കുറിച്ചുള്ള ഒരു ധാരണ എങ്ങനെയാണെന്നും അത് എങ്ങനെ ഒരു ദുരന്തമായി മാറുമെന്നും നിങ്ങൾക്കറിയാം അവിടെയുള്ള വീടുകൾ സസ്യജന്തുജാലങ്ങളെ ബാധിക്കുകയാണെങ്കിൽ അത് സ്വാധീനം ചെലുത്തുമോ അതോ ആവാസവ്യവസ്ഥയെ ബാധിച്ചാൽ അത് സ്വാധീനം ചെലുത്തുമോ അതോ സസ്യജാലങ്ങളെ ബാധിച്ചാൽ ആവാസവ്യവസ്ഥയെയും മനുഷ്യന്റെ നിലനിൽപ്പിനെയും പരോക്ഷമായി ബാധിക്കുമോ അതിനാൽ പ്രകൃതിയുടെ ഓരോ ചെറിയ വശങ്ങളുടെയും ബന്ധങ്ങളും മനുഷ്യന്റെ ഇടപെടലുകളും അദ്ദേഹം വിശദീകരിച്ചു അതിനാൽ നിങ്ങളുടെ കോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയുന്ന ചില ചിത്രങ്ങൾ അതാണ് ശുഭോ ചർച്ച ചെയ്ത രണ്ടാം ഭാഗം ആശയവിനിമയത്തെക്കുറിച്ചാണ് അവിടെയാണ് അയക്കുന്നയാളും സ്വീകരിക്കുന്നയാളും എന്തൊക്കെ വിവരങ്ങളാണ് എത്തിച്ചേരുന്നത് എന്തൊക്കെ വിടവുകളാണ് നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് ധാരണകൾ മാറിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ ഇവിടെയാണ് അദ്ദേഹം റിസ്ക് കമ്മ്യൂണിക്കേഷൻ നിർവചിക്കുന്നത് താൽപ്പര്യമുള്ള കക്ഷികൾ തമ്മിലുള്ള ആരോഗ്യം ദുരന്തം പാരിസ്ഥിതിക അപകടസാധ്യതകൾ എന്നിവയെക്കുറിച്ചുള്ള ഏതെങ്കിലും ഉദ്ദേശ്യപരമായ വിവര കൈമാറ്റം എന്നാണ് അതിനാൽ വീണ്ടും 3 ഘടകങ്ങൾ ഉണ്ട് റിസ്ക് പെർസെപ്ഷൻ റിസ്ക് അനാലിസിസ് റിസ്ക് മാനേജ്മെന്റ് എന്നിവയും അദ്ദേഹം ചർച്ച ചെയ്തു അതിനാൽ റിസ്ക് ആശയവിനിമയം ധാരണ എന്നിവയെക്കുറിച്ചുള്ള മിക്ക ശുഭോസ് പ്രഭാഷണം ഈ 3 പ്രധാന വശങ്ങൾ കവർ ചെയ്തു ഒരാൾ ഒരു സന്ദേശം അയയ്ക്കുമ്പോൾ മുഴുവൻ കോഡിംഗ് പ്രക്രിയയും എങ്ങനെ എന്നും അവൻ അത് എങ്ങനെ സ്വീകരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം ഞാൻ ഉദ്ദേശിച്ചതും ഞാൻ മനസ്സിലാക്കിയതും ഇതെല്ലാമാണ് ഇതെല്ലാം അവൻ നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ച വിടവുകളാണ് പിന്നെ ഇത് വിവര കൈമാറ്റത്തെക്കുറിച്ചാണ് ആശയവിനിമയത്തിന്റെ ഒരേയൊരു ഭാഗമാണ് മാത്രമല്ല ഇത് സംസാരിക്കുന്നത് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് എന്നതിനെക്കുറിച്ചല്ല എന്നാൽ ഇത് പങ്കിട്ട അർത്ഥത്തെക്കുറിച്ചാണ് ഉദാഹരണത്തിന് വ്യത്യസ്ത സാംസ്കാരിക സന്ദർഭങ്ങളോ സാംസ്കാരിക സിദ്ധാന്തങ്ങളോ അപകടസാധ്യതയെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതുപോലെ അദ്ദേഹം അപകടസാധ്യതയുടെ സാംസ്കാരിക സിദ്ധാന്തം കൊണ്ടുവന്നു അതിനാൽ ഇവിടെ ഞങ്ങൾ പാമ്പിനെ നോക്കുമ്പോൾ എത്ര വ്യത്യസ്ത സംസ്കാരങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയാവുന്ന ഇന്ത്യൻ സംസ്കാരം പാമ്പിനോട് പ്രാർത്ഥിക്കുന്നു ചിലർ വീഡിയോഗ്രാഫി എടുക്കുന്നു ചിലർ അതിനെ വെട്ടി തിന്നുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു നിങ്ങൾക്കറിയാം അതുപോലെ ഒരേ കാര്യത്തെക്കുറിച്ച് എല്ലാവർക്കും വ്യത്യസ്ത ധാരണകൾ ആണ് ഒരു ചെറിയ നിറം അല്ലെങ്കിൽ ചുവപ്പ് വെളിച്ചം പോലും മറ്റൊരു സന്ദർഭത്തിൽ എങ്ങനെ മനസ്സിലാക്കപ്പെടുന്നു എന്നത് ഇവിടെയാണ് ഇപ്പോൾ ആംസ്റ്റർഡാമിലെ ഒരു വേശ്യാലയത്തിൽ ഉപയോഗിക്കുന്ന അതേ ചുവന്ന ലൈറ്റ് തന്നെയാണ് സ്റ്റോപ്പ് ഓവറിന്റെ പ്രാധാന്യവും വെളിപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് ഈ ചുവന്ന വെളിച്ചത്തിന്റെ അർത്ഥം അത് സ്ഥാപിച്ചിരിക്കുന്ന സന്ദർഭത്തെ ആശ്രയിച്ചിരിക്കുന്നു അവിടെയാണ് അപകടസാധ്യത സാംസ്കാരികമായി നിർമ്മിച്ചിരിക്കുന്നത് കാരണം നാമെല്ലാവരും സാംസ്കാരികമായി പക്ഷപാതിത്വമുള്ളവരാണ് ചുറ്റുമുള്ള ലോകത്തെ ആളുകൾ എങ്ങനെ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നത് അവരുടെ ജീവിതരീതിയെ ആശ്രയിച്ചിരിക്കുന്നു അവർക്കറിയാവുന്ന ചില ആളുകൾക്ക് അവർ എങ്ങനെ വളർന്നു എന്ന ഒരു ചെറിയ കാര്യം അവർക്ക് വലിയ അപകടമായി തോന്നാം പക്ഷേ അത് ഒരു റിസ്ക് ആകണമെന്നില്ല അതിനാൽ ഇതെല്ലാം സാംസ്കാരിക ഘടകത്തെക്കുറിച്ചാണ് അതിനാൽ ഇവിടെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് നിരവധി അപകടസാധ്യതകളുണ്ട് പക്ഷേ അതിന്റെ ലിസ്റ്റിന് എങ്ങനെ മുൻഗണന നൽകാം അതിനാൽ ഇത് അപകട മുൻഗണനയാണ് കാരണം ഇത് വളരെ സഹജമായതാണ് അപകടസാധ്യതയ്ക്ക് ഞങ്ങൾ എങ്ങനെ മുൻഗണന നൽകുന്നു അതിനനുസരിച്ച് ഞങ്ങൾ എങ്ങനെ ആസൂത്രണം ചെയ്യുന്നു എന്നതിന്റെ ആസൂത്രണ തത്വങ്ങളിലേക്ക് ഇത് തിരികെ പോകുന്നുഎങ്ങനെ ആസൂത്രണം എന്നത് ഭൌതിക ആസൂത്രണം മാത്രമല്ലനമ്മുടെ ബജറ്റുകൾ എങ്ങനെ ആസൂത്രണം ചെയ്യുന്നു എന്നതാണ് മുഴുവൻ പ്രക്രിയയും ഞങ്ങൾ എങ്ങനെ സുരക്ഷിതമാക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ അങ്ങനെയാണ് ഞങ്ങൾ ചർച്ച ചെയ്തത് മൂന്നാമത്തെ മൊഡ്യൂളിൽ റോളുകളെക്കുറിച്ചും റെസ്പോണ്സിബിലിറ്റിയെക്കുറിച്ചും അത് എങ്ങനെ സാധൂകരിച്ചു എന്നതും ചർച്ച ചെയ്തു അതുപോലെ വ്യത്യസ്ത പ്രൊഫഷണൽ ബോഡികൾക്കിടയിൽ എങ്ങനെ ഒരു പദപ്രയോഗം ഉണ്ട് എന്നതും ചർച്ച ചെയ്തു അവർ എങ്ങനെ സംഭാവന നൽകണം DRR ലെ അവരുടെ സംഭാവനയുടെ പങ്ക് എന്താണ് അവിടെയാണ് ഞങ്ങൾ ടോണി ലോയ്ഡ് ജോൺസ് ഇൻ മാക്സ് ലോക്ക് സെന്ററുകളിലെ സർവേയർ ആർക്കിടെക്റ്റുകൾ എഞ്ചിനീയർ പ്ലാനർ എന്നിങ്ങനെ 4 വ്യത്യസ്ത വിഭാഗങ്ങളുടെ പ്രവർത്തനത്തെ പരാമർശിക്കുന്നത് അപ്പോൾ അവരുടെ റോളുകൾ എന്തൊക്കെയാണ് അവർ ഏത് ഘട്ടമാണ് വാസ്തവത്തിൽ ഈ കോഴ്സ് ഘടന പോലും അവർ ഘട്ടം തിരിച്ച് രൂപപ്പെടുത്തിയ രീതിയെ അടിസ്ഥാനമാക്കിയാണ് പിന്തുടരുന്നത് അതിനാൽ ദുരന്തസമയത്തെ ദുരന്തത്തിന് മുമ്പുള്ള ആസൂത്രണവും പരിവർത്തന ദുരിതാശ്വാസവും പുനർനിർമ്മാണവും അവസാനമായി എങ്ങനെ പൊരുത്തപ്പെടുത്തൽ പ്രക്രിയ നടത്തണം എന്നും നിങ്ങൾക്കറിയാം വ്യത്യസ്ത റോളുകളും കഴിവുകളും എങ്ങനെ ഉപയോഗിക്കാമെന്നും എപ്പോൾ ഉപയോഗിക്കണമെന്നും എന്ത് വൈദഗ്ധ്യമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നും നിങ്ങൾക്കറിയാം ഇപ്പോൾ ആശയവിനിമയ പ്രക്രിയയിൽ തീർച്ചയായും ശുഭോ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് എന്നാൽ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ചായിരുന്നു അത് എങ്ങനെ ആശയവിനിമയം നടത്തുന്നു എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം ഹിയറിങ്ങിൽ ചർച്ച ചെയ്തത് വിവരങ്ങൾ എങ്ങനെ കൈമാറപ്പെടുന്നു വായിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയാം അതിനാൽ ഈ എൻജിഒകൾക്കും പുറത്തുനിന്നുള്ളവർക്കും എങ്ങനെ ഈ നെറ്റ്വർക്ക് അറിയാം ഈ സോഷ്യൽ ക്യാപിറ്റൽ സോഷ്യൽ നെറ്റ്വർക്ക് ഓഫ് ഹിയറിങ് ഫലപ്രദമായി ഉപയോഗിക്കുന്നു അടിസ്ഥാനപരമായി എൻജിഒകൾ എൻജിഒകളുടെ കേന്ദ്ര വ്യക്തികളും ചില കമ്മ്യൂണിറ്റി അംഗങ്ങളും ഈ നെറ്റ്വർക്കുകളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം സമാനമായ ഒരു ശൃംഖല ഉണ്ടെങ്കിൽ സുനാമി സമയത്ത് 2004 ലെ സുനാമി സമയത്ത് മറ്റ് 3 സ്ഥാലത്തെത്താൻ വേണ്ടിയിരുന്നെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുനാമി തമിഴ്നാട്ടിലെത്താൻ സമാനമായ ശൃംഖലകൾ നടപ്പിലാക്കിയിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് ജീവൻ രക്ഷിക്കാമായിരുന്നു ഒരുപാട് നഷ്ടങ്ങൾ ഒഴിവാക്കുമായിരുന്നു കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിനാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തോതും തമ്മിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്കറിയാം സ്കെയിൽ പൊരുത്തക്കേടുകൾ ഉള്ളതിനാൽ DRR ഉം കാലാവസ്ഥാ വ്യതിയാന അഡാപ്റ്റേഷനും സമന്വയിപ്പിക്കാനും ശരിയായി സംയോജിപ്പിക്കാനും ഞങ്ങൾക്ക് കഴിയാത്തത് എന്തുകൊണ്ട് സ്പേഷ്യൽ സ്കെയിൽ വെല്ലുവിളികൾ ഉണ്ട് വിജ്ഞാന പൊരുത്തക്കേടുകൾ ഉണ്ട് താൽക്കാലിക വെല്ലുവിളികളും മാനദണ്ഡങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടുകളും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്ത വിവിധ സന്ദർഭങ്ങളുണ്ട് അവിടെയാണ് കാലാവസ്ഥാ വ്യതിയാനത്തെ ആംസ്റ്റർഡാം അവയുടെ തടസ്സം തുടങ്ങി വ്യത്യസ്ത നഗരങ്ങൾ എങ്ങനെ നേരിടുന്നു എന്ന് കാണേണ്ടത് ഒരു കാലത്ത് 10 വർഷത്തിനുള്ളിൽ മാത്രം തുറക്കുന്ന ഇവ ഇപ്പോൾ ഏതാണ്ട് 1 2 വർഷം കൂടുമ്പോഴാണ് തുറക്കുന്നുണ്ട് ഫ്ലോട്ടിംഗ് ഹൌസുകളെക്കുറിച്ചുള്ള വിവിധ അഡാപ്റ്റേഷൻ പ്രക്രിയകളെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്തു എന്നാൽ അതുപോലെ ഞങ്ങൾ ഒരു നിർണായക രീതിയിൽ നോക്കി അത് മൂല്യവത്താണോ ശതകോടിക്കണക്കിന് തുക ചെലവഴിക്കുക ഫ്ലോട്ടിംഗ് വീടുകൾക്കായി ചെലവഴിക്കുക അല്ലെങ്കിൽ അതിനായി ഇതിലും മികച്ച മാർഗമുണ്ടോ ഫിലിപ്പീൻസിലെ റെജീന ലിംസ് കൃതിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള ചർച്ചകളുമായി ഞങ്ങൾ ബന്ധപ്പെടുന്നത് ഇവിടെയാണ് എവിടെ തദ്ദേശീയ സമൂഹങ്ങൾക്ക് അവരുടെ കടലിനെയും മത്സ്യബന്ധന സ്ഥലങ്ങളെയും സ്വാധീനത്തെയും കുറിച്ച് എങ്ങനെ അറിവുണ്ട് അവർ എന്താണ് കാണുന്നത് എങ്ങനെയാണ് വിദേശ മത്സ്യത്തൊഴിലാളികൾ ഈ തദ്ദേശീയമായ അറിവ് മനസ്സിലാക്കാൻ അവർക്ക് എങ്ങനെ കഴിയുന്നു മാത്രമല്ല ഇവ വലിയ സ്വാധീനം സൃഷ്ടിക്കുന്നുമില്ല അതിനാൽ സംസ്കാരങ്ങൾ തദ്ദേശീയ സംസ്കാരങ്ങൾ എന്നിവയ്ക്ക് അപകടസാധ്യതയെക്കുറിച്ച് അറിവ് എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾ പഠിച്ചു ഇവിടെയാണ് ഒരു വലിയ സ്കെയിലിൽ നിന്ന് ഒരു ബിൽഡിംഗ് സ്കെയിലിലേക്കും വ്യത്യസ്ത സമയ ഘട്ടങ്ങളിലേക്കും വ്യത്യസ്ത സ്കെയിലുകളെ എങ്ങനെ സംയോജിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള എന്റെ നിലവിലുള്ള പ്രവർത്തനങ്ങളുടെ അഡാപ്റ്റീവ് ബിൽറ്റ് എൻവയോൺമെന്റിന്റെ ചട്ടക്കൂടുകളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തത് ഭാവിയിലെ അപകടസാധ്യതയ്ക്ക് മുമ്പുള്ള ദുരന്തമാണിത് ദുരന്താനന്തരവും ഭാവിയിലെ അപകടസാധ്യതകളും അപകടസാധ്യത വിലയിരുത്തലും മാക്രോ മെസോ മൈക്രോ ലെവലുകൾ എന്നിവയ്ക്ക് ഇത് എങ്ങനെ കൊണ്ടുപോകാം എന്നിങ്ങനെയുള്ള വിലയിരുത്തലാണ് ഇവിടെയാണ് നമ്മൾ വിവിധ സ്ഥാപനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാണ് സ്ഥാപനപരമായ സഹകരണം ഏകോപനം പങ്കാളിത്ത ആശയവിനിമയം ആഗോള ദേശീയ പ്രാദേശിക തലങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നത് അതിനാൽ ഇവിടെയാണ് പ്രകൃതിയെയും സംസ്കാരത്തെയും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരാനും ദുരന്തസാധ്യത കുറയ്ക്കുന്നതിലും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പൊരുത്തപ്പെടുത്തലും മനസ്സിലാക്കുന്നതും അതിനാൽ മൊത്തത്തിൽ അതിന്റെ മാനേജ്മെന്റ് തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാന ഭാഗങ്ങൾ അതിന്റെ സൈദ്ധാന്തിക തത്ത്വശാസ്ത്രം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ച ചില ടൂളുകൾ എന്നാൽ മുഴുവൻ കോഴ്സും പ്രധാനമായും ബിൽറ്റ് എൻവിറോണ്മെന്റ് പ്രൊഫെഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നിർമ്മിത പരിസ്ഥിതിയുടെ സ്വഭാവം അത് എങ്ങനെ സ്വാധീനിക്കുന്നു എങ്ങനെ കൈകാര്യം ചെയ്തു എങ്ങനെ പ്രതികരിച്ചു അങ്ങനെയാണ് ഞാൻ അതിനെ ബിൽറ്റ് എൻവയണ്മെന്റ്സ് ഇൻ ട്രാന്സിഷൻ എന്ന് വിളിക്കുന്നത് അതിനാൽ കെനിയയിലേതുപോലെ വ്യത്യസ്തമായ കേസുകളുണ്ട് പിന്നീട് എങ്ങനെയാണ് ട്രാൻസിഷൻ ഷെൽട്ടർ വ്യക്തിഗതമാക്കിയത് ആളുകൾ എങ്ങനെയാണ് പങ്കെടുത്തത് ഇവിടെയാണ് സാംസ്കാരിക പോരായ്മകളോടും സാമ്പത്തിക അവസരങ്ങളോടുമുള്ള സ്വാഭാവിക പ്രതികരണമാണ് വ്യക്തിഗതമാക്കലിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് അതിനാൽ ഗുജറാത്ത് വീണ്ടെടുക്കലിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത സംക്രമണ സങ്കേതങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് എന്റെ സ്വന്തം ആ സമയത്തെ സ്വന്തം സന്ദർശനങ്ങളാണ് സ്കൂളുകൾ അവിടെ ഇല്ലാതിരുന്നതെങ്ങനെ വിവിധ എൻജിഒകൾ എങ്ങനെ മുന്നോട്ടുവരുന്നു സ്കൂൾ വിദ്യാഭ്യാസത്തെ അവർ എങ്ങനെ പിന്തുണച്ചു കൂടാതെ വ്യത്യസ്ത സാങ്കേതിക ഇൻപുട്ടുകൾ പേപ്പർ ഹൌസുകളും ടെന്റുകളും അതിന്റെ വില എന്നാൽ നമ്മൾ കാണുന്നത് പരിവർത്തനം മുതൽ അത് എങ്ങനെ ശാശ്വതതയിലേക്ക് നീങ്ങുന്നു എന്നതാണ് അതിനാൽ വിവിധ എൻജിഒകൾ വലിയ പങ്കാളിത്തത്തോടെ വളരെ വേഗത്തിൽ അത് ഏറ്റെടുത്തു എന്നാൽ ഇവിടെ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് കല്ല് ഉപയോഗിച്ച് കെട്ടിടനിർമ്മാണത്തിലേക്ക് തിരിച്ചെത്തിയതെന്നും വിവിധ പ്രൊഫഷണൽ ബോഡികൾ കുറച്ച് വൈദഗ്ധ്യം നൽകുന്നുവെന്നും അത് എങ്ങനെ സുരക്ഷിതമായി നിർമ്മിക്കാമെന്നതിനെക്കുറിച്ചുള്ള ചില മാർഗ്ഗനിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും അപകടസാധ്യത എങ്ങനെ മനസ്സിലാക്കാം എന്നതാണ് മുഴുവൻ കോഴ്സിലും ഞങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് അറിയാവുന്ന വ്യത്യസ്ത രീതികളും ഞങ്ങൾ കാണുന്നുണ്ട് പൊരുത്തപ്പെടുത്തൽ എങ്ങനെ മനസ്സിലാക്കാം ആശയവിനിമയ പ്രക്രിയ വിടവുകൾ ഇവ എങ്ങനെ മനസ്സിലാക്കാം അതിനാൽ ഇവിടെയാണ് അഭിമുഖങ്ങളുടെ വ്യത്യസ്ത രീതികളെക്കുറിച്ചും മാപ്പിംഗ് ടൂളുകളിൽ നിന്നുള്ള ചില അളവിലുള്ള ധാരണകളെക്കുറിച്ചും മെന്റൽ മാപ്പുകളെക്കുറിച്ചും സമയമനുസരിച്ച് അവ എങ്ങനെ എന്ന വ്യത്യസ്തമായ സമീപനങ്ങളെക്കുറിച്ചും ഞങ്ങൾ ചർച്ചചെയ്തത് ഒരു സമൂഹത്തെ എങ്ങനെ സമീപിക്കാം സാമൂഹിക തലത്തിലുള്ള സമീപനങ്ങൾ പങ്കാളിത്ത സമീപനങ്ങൾ ഇതെല്ലാം സുനാമി കേസിൽ ഉൾപ്പെടെ ഞങ്ങൾ ചർച്ച ചെയ്തു പൊരുത്തപ്പെടുത്തൽ എങ്ങനെ ആരംഭിക്കുന്നു എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തുഎങ്ങനെ ഒരു ചെറിയ വീട് അല്ലെങ്കിൽ ഒരു കക്കൂസ് ആരാധനാലയമാകുന്നു ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ തന്റെ വീടിന്റെ മുൻവശം കടയാക്കി മാറ്റിയതെങ്ങനെ അതുവഴി അവർ തങ്ങളുടെ പൊതുസ്ഥലങ്ങൾക്കായി സമീപപ്രദേശങ്ങൾ കയ്യേറാൻ തുടങ്ങി അതിനാൽ ഇത് നിർമ്മിച്ച പരിസ്ഥിതി കാഴ്ചപ്പാടിന്റെ ഒരു വലിയ വീക്ഷണം കൊണ്ടുവരുന്നു ഇത് നഗര രൂപകല്പന വശങ്ങളിൽ പോലും ഏറ്റവും ചെറിയ ഒരു സെറ്റിൽമെന്റ് ആസൂത്രണം ചെയ്യുന്നു എന്നാൽ നിങ്ങൾ സാംസ്കാരിക പൊരുത്തപ്പെടുത്തൽ നോക്കേണ്ടതുണ്ട് അവിടെയാണ് ഒരാൾ ചെയ്യേണ്ടതെങ്കിൽ 80 വർഷത്തിന് ശേഷം നമുക്ക് ഇതേ കഥ കാണാൻ കഴിയും അവയുടെ നിർമ്മിത രൂപങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ എങ്ങനെ പരിഷ്ക്കരിച്ചിരിക്കുന്നു അവരുടെ തെരുവ് ശൃംഖലകളുടെ കാര്യത്തിൽ പൊതു ഇടങ്ങളുടെ കാര്യത്തിൽ അവർ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെയാണ് പാരമ്പര്യം പുതിയ രൂപത്തിൽ തിരികെ വരുന്നത് അതായത് ഒരു ഹൈബ്രിഡ് രൂപത്തിൽ തിരികെ വരുന്നു അതിനാൽ എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങൾ ചർച്ച ചെയ്തത് പ്രക്രിയയെയും നെറ്റ്വർക്കുകളെയും കുറിച്ചാണ് അതിനാൽ സംഘടനകൾ കമ്മ്യൂണിറ്റികളുമായി എങ്ങനെ ഇടപെട്ടു അത് എങ്ങനെ മൈക്രോ ലെവൽ ഏജൻസിയിയിൽ നിന്ന് വളരെ മാക്രോ ലെവൽ ഏജൻസിയിലെക്ക് നെറ്റ്വർക്ക് ചെയ്തു അതിനാൽ കാപ്പി കർഷകരുടെ കൂട്ടായ്മയായ കൊളംബിയയിലെ ഗ്രാമീണ നിർമ്മാണത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു അവരുടെ സംഘടന എങ്ങനെ രൂപപ്പെട്ടു കാപ്പി കർഷകരുടെ സംഘടനകളുടെ സ്ഥാപന ഘടനയും അവയുടെ ധനസഹായ പ്രക്രിയയും എങ്ങനെ രൂപപ്പെട്ടു അത് എങ്ങനെയാണ് വികസിപ്പിച്ചെടുത്തത് എങ്ങനെയാണ് ഒരു പങ്കാളിത്ത സമീപനത്തിൽ നിന്ന് സാങ്കേതിക വൈദഗ്ധ്യം അവരെ എങ്ങനെ പിന്തുണച്ചു ഈ അസോസിയേഷനുകളെ പിന്തുണയ്ക്കുന്നതിനായി വിവിധ ഫണ്ടിംഗ് പ്ലാറ്റ്ഫോമുകൾ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു അതേസമയം ഇത്തരത്തിലുള്ള പ്രതികരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം ഇവിടെയാണ് പ്രീഫാബ് സാങ്കേതികവിദ്യയും സ്വീകരിച്ചിരിക്കുന്നതെന്നും ആളുകൾ അതിൽ എങ്ങനെ പരിശീലനം നേടിയെന്നും സാങ്കേതിക വൈദഗ്ദ്ധ്യം അവരെ നയിക്കുന്നതെന്നും നമുക്ക് കാണാൻ കഴിയും ചില ആളുകൾ അവരുടെ വീടുകൾ നന്നാക്കാനും പുതിയ വീടുകൾ പണിയാനും തുടങ്ങിയത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ തുർക്കിയിൽ വാടകക്കാർ എങ്ങനെയെന്ന് ഞങ്ങൾ പഠിച്ചു ഈ പ്രക്രിയയിൽ അവർ അംഗീകരിക്കപ്പെടുന്നില്ലെന്ന് നിങ്ങൾക്കറിയാം അവിടെയാണ് കമ്മ്യൂണിറ്റി ഏജൻസികളുള്ള എൻജിഒകൾ പോലുള്ള ചെറിയ പ്രവർത്തകർ മുന്നോട്ട് വന്നത് അവരും അതിൽ വ്യത്യസ്ത പ്രോജക്റ്റുകളിൽ പ്രവർത്തിച്ചു ഈ മുഴുവൻ ചർച്ചകളും പങ്കാളിത്ത പ്രക്രിയയെക്കുറിച്ചും സുഗമമാക്കൽ പ്രക്രിയയെക്കുറിച്ചും നിയന്ത്രണ സംവിധാനങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു ആരാണ് എന്താണ് നിയന്ത്രിക്കുന്നത് ആരാണ് വ്യായാമത്തിന്റെ നിയമങ്ങളും ഫെസിലിറ്റേറ്ററുകളും നിയന്ത്രിക്കുന്നത് അതിനാൽ ഈ കേസ് പഠനങ്ങളിലെല്ലാം ആളുകളെ കേന്ദ്രത്തിൽ നിർത്തുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിനാൽ ഇവിടെയാണ് ശുഭോ ബോംബെയിലെ തന്റെ ധാരാവി വർക്കിനെക്കുറിച്ചും കമ്മ്യൂണിറ്റികൾ എങ്ങനെ അപകടസാധ്യതകൾ മനസ്സിലാക്കിയെന്നും അവസാനം അവർ അത് ക്രോസ് വെരിഫൈ ചെയ്തതിനെക്കുറിച്ചും ചർച്ച ചെയ്തത് അതിനാൽ ഈ മുഴുവൻ ധാരണയും കമ്മ്യൂണിറ്റി തലത്തിലുള്ള ധാരണയാണ് ഇതും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ പഠിച്ച ചില രീതികൾ മൂല്യനിർണ്ണയങ്ങൾ ഈ കോഴ്സിൽ ഞങ്ങൾ എങ്ങനെ കാണുന്നു കാസിഡി ജോൺസന്റെ ആഗോള മൂല്യനിർണ്ണയ റിപ്പോർട്ടുകൾ പോലെയുള്ള വിവിധ മൂല്യനിർണ്ണയ റിപ്പോർട്ടുകൾ അവിടെ അവർ ബിൽഡിംഗ് കോഡുകളെക്കുറിച്ച് സംസാരിക്കുന്നു ലൊക്കേഷൻ സമീപനവും ഡിസൈൻ സമീപനവും എവിടെയാണ് ബിൽഡിംഗ് കോഡുകൾ ഉണ്ടായിട്ടും ബിൽഡിംഗ് കോഴ്സ് ബംഗ്ലാദേശിലെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാത്തതെന്ത് അതിന്റെ യാഥാർത്ഥ്യം എങ്ങനെ ദുർബലമായ സാഹചര്യങ്ങളായി മാറുന്നു കൂടാതെ പാകിസ്ഥാൻ നേപ്പാൾ ശ്രീലങ്ക ഇന്ത്യ തുടങ്ങിയ വികസ്വര രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ദക്ഷിണേഷ്യൻ ദുരന്ത റിപ്പോർട്ടിന്റെ മറ്റ് വിവിധ റിപ്പോർട്ടുകളെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്തു ചട്ടക്കൂടുകൾക്ക് പിന്നിൽ ദുരന്തസാധ്യത കുറയ്ക്കുന്നതിനുള്ള ജോൺ ട്വിഗ്സിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള നല്ല പ്രാക്ടീസ് അവലോകനങ്ങൾ ഞാൻ പരാമർശിച്ചു അവിടെയാണ് അദ്ദേഹം ഈ ചട്ടക്കൂടുകളെല്ലാം ഒരു സെഗ്മെന്റിലേക്ക് സമാഹരിച്ചത് അതിനാൽ ഇത് വളരെ സമീപകാല പതിപ്പാണ് ദുരന്തസാധ്യതയെക്കുറിച്ചും ദാരിദ്ര്യ ബന്ധത്തെക്കുറിച്ചും ഞങ്ങൾ ഇവിടെ സംസാരിച്ചു അതുപോലെ ഉപജീവന ചട്ടക്കൂടിൽ നിന്നുള്ള ഡിഎഫ്ഐഡികളുടെ പ്രതിരോധ ചട്ടക്കൂടിനെക്കുറിച്ചും ഞങ്ങൾ എങ്ങനെ പ്രതിരോധ ചട്ടക്കൂടുകളിലേക്ക് നീങ്ങുന്നുവെന്നതിനെക്കുറിച്ചും സംസാരിച്ചു അതിനാൽ ഇതെല്ലാം ചർച്ച ചെയ്തു അതിനാൽ പ്രതിരോധശേഷിയുള്ള ചട്ടക്കൂടുകളെക്കുറിച്ചും ആഗോളതലത്തിൽ സൺഡേ ചട്ടക്കൂട് എങ്ങനെ പ്രവർത്തനത്തിനുള്ള ഹ്യൂഗോ ചട്ടക്കൂട് എങ്ങനെ പ്രവർത്തനത്തിനുള്ള ഈ മുൻഗണനകൾ എന്തൊക്കെയാണ് അതിനാൽ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ചർച്ച ചെയ്തു സ്ഥാപന ശൃംഖലകളിൽ യുഎൻ എങ്ങനെ പ്രവർത്തിക്കുന്നു യുഎൻ സ്വന്തം സജ്ജീകരണത്താൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന വിവിധ ബോഡികൾ ഏതൊക്കെയാണ് എന്നിങ്ങനെ എല്ലാം ചർച്ച ചെയ്തു കമ്മ്യൂണിറ്റി അടിസ്ഥാനമാക്കിയുള്ള നെറ്റ്വർക്കുകളെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്തു അവിടെയാണ് CAM CBDRM ഇവിടെയാണ് കമ്മ്യൂണിറ്റി അസറ്റ് മാനേജ്മെന്റും കമ്മ്യൂണിറ്റി ബേസ് ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റും അതിനാൽ ദുരന്തസാധ്യത കുറയ്ക്കുന്നതിൽ വ്യത്യസ്ത സാമൂഹിക തലസ്ഥാനങ്ങളും അതിന്റെ ശൃംഖലയും എങ്ങനെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു നേപ്പാളിന്റെ കാര്യത്തിൽ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നിയമപരമായി എത്രത്തോളം ഉണ്ടെന്നും ഞങ്ങൾ ചർച്ച ചെയ്തു ബില്ലുകൾ എങ്ങനെയാണ് ബില്ലായി നിലനിന്നത് എങ്ങനെ അത് ഒരു ആക്റ്റായി മാറിയില്ല നിങ്ങൾക്ക് അറിയാവുന്ന പ്രാദേശിക ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് പ്ലാനിംഗ് മാർഗ്ഗനിർദ്ദേശങ്ങൾ അവിടെയാണ് ദുരന്തങ്ങളെയും വികസനത്തെയും ശരിയായി ബന്ധിപ്പിക്കാൻ അതിന് കഴിയുന്നില്ല അതിനാൽ ഒരു ആദർശം ഉണ്ടായിരിക്കുകയും അതിനുള്ളിൽ പോകേണ്ട ചില തരത്തിലുള്ള ആസൂത്രണ പ്രക്രിയ ഉണ്ടായിരിക്കുകയും വേണം അപകടാവസ്ഥയിലുള്ള പൈതൃകത്തെക്കുറിച്ചുള്ള വിവിധ ഉദാഹരണങ്ങളെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്തു പിതൽഖോര ഗുഹകൾ പോലെ റോക്ക് ഷെൽട്ടറുകൾ GEO സാങ്കേതിക വീക്ഷണത്തോടെ എങ്ങനെ വിലയിരുത്തപ്പെട്ടു അതുപോലെ തന്നെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു ഇത് എങ്ങനെ റേറ്റുചെയ്തു പിന്നെ എങ്ങനെ എങ്ങനെയുള്ള ഇടപെടലുകൾ രൂപപ്പെട്ടു നിങ്ങൾക്കറിയാമോ ഒരു ചെറിയ തൂൺ നിർമ്മിക്കാൻ അഥവാ ഒരു ചെറിയ കനാൽ നിർമ്മിക്കാൻ ഇത് എടുത്തിട്ടുണ്ടാകാം എന്തൊക്കെയാണ് നമ്മൾ പാലിക്കേണ്ട വിവിധ കർശന നിർദ്ദേശങ്ങൾ എന്തൊക്കെ തൊടണം തൊടരുത് എന്തൊക്കെ നീക്കം ചെയ്യണം എന്തൊക്കെ ചേർക്കരുത് അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ആ അഭ്യാസത്തിൽ നമ്മൾ പഠിച്ചു അയുത്തായ നഗരത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത ഒന്ന് കൂടിയുണ്ട് അത് എങ്ങനെ അപകടസാധ്യതയ്ക്ക് വിധേയമായി അവരുടെ ഖനന നഗരമായ കിരുണയെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്തു ഇത് ഒരു സ്കെയിൽ ആണ് അതിനാൽ ഇപ്പോൾ ഒരു ഗുഹയിൽ നിന്ന് ആരംഭിച്ച് ഞങ്ങൾ ചരിത്രപരമായ ഒരു പരിസരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞങ്ങൾ ഒരു മുഴുവൻ കിരുണ നഗരത്തെക്കുറിച്ചും സംസാരിക്കുന്നു ഖനന പ്രശ്നം കാരണം അത് എങ്ങനെ സംരക്ഷിക്കപ്പെട്ടു ഇവയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ശേഷം പുനർനിർമ്മാണ സ്ഥലമായ കാമിലോ ബോനോസിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നു അത് എങ്ങനെ സൈദ്ധാന്തികമാക്കാം ഗിബെല്ലീനയുടെ കേസിനൊപ്പം ഗിബെല്ലീന കേസിൽ നിന്നും ടർക്കിഷ് കേസ് കപ്പഡോഷ്യ കേസിൽ എന്നിവയിൽ നിന്നും നമ്മൾ പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ് ശക്തി പ്രഭാഷണം ഓപ്ഷനുകൾ തിരഞ്ഞെടുപ്പുകൾ എന്നിവയെക്കുറിച്ചുള്ള പുനർനിർമ്മാണ സ്ഥലത്തെക്കുറിച്ചുള്ള സൈദ്ധാന്തിക ധാരണ ഇങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന മാർഗ്ഗനിർദ്ദേശത്തെക്കുറിച്ച് ചർച്ച ചെയ്തു മാർഗനിർദേശം നൽകിയ വിവിധ മാനുവലുകൾ ഏതൊക്കെയാണ് പ്രാക്ടീഷണർമാർക്ക് തംബ് റൂൾ നിർദ്ദേശങ്ങൾ നൽകുന്ന വിവിധ തരം എന്തൊക്കെയാണ് എന്നാൽ വാസ്തവത്തിൽ ഇവ ഉണ്ടായിരുന്നിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ് ഈ മലക്പേട്ട് ഭുജിന്റെ യാഥാർത്ഥ്യവും ഇവ എങ്ങനെ സംഭവിക്കുന്നു കാരണം ഇവിടെയാണ് ആസൂത്രണ നിയന്ത്രണം വീണ്ടും സുനാമിയിൽ വീടുകളുടെ പുനർനിർമ്മാണത്തിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു ഒപ്പം കേരളത്തിലെ സമീപകാല പ്രളയവും ബെന്നി കുര്യാക്കോസിനൊപ്പം അതിന്റെ പ്രാദേശിക സന്ദർഭം മനസ്സിലാക്കി പ്രാദേശിക ഭാഷയിൽ ഉരുത്തിരിഞ്ഞു സിബിആർഐകളും ഗ്രാമവികസന മന്ത്രാലയവുംഗ്രാമീണ ഭവന സാങ്കേതികവിദ്യകളിൽ അവർ എങ്ങനെ പ്രവർത്തിക്കുന്നു ഈ ഗ്രാമീണ ഭവന സാങ്കേതിക വിദ്യകൾ എങ്ങനെ സാധൂകരിക്കാം എന്നിവയെക്കുറിച്ച പ്രത്യേകിച്ച് 13 സംസ്ഥാനങ്ങളിൽ അവർ ഇതിനകം പ്രവർത്തിച്ചിട്ടുണ്ട് അതിനാൽ ഞങ്ങൾ ചുരുക്കമായി അതിലൂടെ കടന്നുപോയി തുടർന്ന് വിദ്യാഭ്യാസത്തിന്റെ ദാർശനിക ഉള്ളടക്കത്തെക്കുറിച്ചും ഞങ്ങൾ അഭിസംബോധന ചെയ്തു അവിടെയാണ് ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ ഒപ്പം എന്ന സങ്കൽപ്പത്തിൽ എച്ച് ചയ്യ പ്രവർത്തിക്കുന്നത് ഞാൻ എന്നതിന്റെ സത്തയിൽ നിന്ന് അത് എങ്ങനെ വികസിക്കുന്നു അത് സമൂഹത്തിലേക്കുള്ള സ്വയം തിരിച്ചറിവാണ് അത് യഥാർത്ഥത്തിൽ DRR ൽ വലിയ സ്വാധീനം ചെലുത്തും അതിനാൽ ഇതും ഇത് വാസ്തുവിദ്യാ ഓറിയന്റേഷനുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അവിടെയാണ് ഞങ്ങൾ അധ്യാപനത്തെക്കുറിച്ചും സംസാരിച്ചത് അധ്യാപനശാസ്ത്രത്തിൽ വിവിധ ഉപകരണങ്ങളെക്കുറിച്ച് ഞങ്ങൾ വിശദീകരിച്ചു വ്യത്യസ്ത അധ്യാപന പരിശീലനം സ്വീകരിച്ചു അത് മികച്ചതായി പുനഃസ്ഥാപിക്കുന്നതിന് സാധാരണയായി പരിശീലിക്കുന്ന ഒന്നായാണ് ഞാൻ എന്നെത്തന്നെ ഉപയോഗിച്ചതും എന്റെ വിദ്യാർത്ഥികളുമായി ഞാൻ ചെയ്യാൻ ശ്രമിച്ചതും വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള മുഴുവൻ പഠനവും ഒരൊറ്റ ഷീറ്റിൽ അവർ എങ്ങനെ ആശയവത്കരിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഒരു റോൾ മോഡലുകൾ റോൾ പ്ലേകൾ ഈ വ്യത്യസ്ത സാങ്കേതിക വിദ്യകൾ അതിൽ എങ്ങനെ പങ്കു വഹിക്കുന്നു കാരണം നമ്മൾ അവരെ യഥാർത്ഥ സന്ദർഭത്തിലേക്ക് പഠിപ്പിക്കേണ്ടതുണ്ട് കാരണം യഥാർത്ഥ സന്ദർഭത്തിനായി അവരെ തയ്യാറാക്കേണ്ടതുണ്ട് അതിനാൽ ഇപ്പോൾ ഞങ്ങൾ അതിന്റെ സംഗ്രഹത്തിലെത്തുന്നു എന്നാൽ ഇപ്പോൾ അതേ ഫോർമാറ്റിലുള്ള അതേ ഷീറ്റിൽ നമ്മൾ പഠിച്ചത് ഞാൻ അവസാനിപ്പിക്കും ഡിസാസ്റ്റർ റിക്കവറി ആൻഡ് ബിൽഡ് ബാക് ബെറ്റർ എന്ന ഈ കോഴ്സിൽ ഞങ്ങളുടെ പ്രധാന പഠനങ്ങൾ എന്തൊക്കെയാണ് ഓരോ മൊഡ്യൂളും എന്താണ് നമ്മുടെ പ്രധാന പഠനങ്ങൾ ആദ്യ മൊഡ്യൂളിലും ഇത് ശുപാർശ ചെയ്യുന്നു ദയവായി ആദ്യം സിദ്ധാന്തം മനസിലാക്കുകയും അറിയുകയും ചെയ്യുക കാരണം സിദ്ധാന്തത്തിന് എല്ലായ്പ്പോഴും മികച്ച പരിശീലനത്തിനായി നിങ്ങളെ ബന്ധിപ്പിക്കാൻ കഴിയും രണ്ടാമത്തെ മൊഡ്യൂളിൽ മാപ്പിംഗ് ടെക്നിക്കുകളെക്കുറിച്ചും ഞങ്ങൾ പഠിച്ചു ആദ്യം അപകടസാധ്യത എങ്ങനെ മാപ്പ് ചെയ്യുന്നു അപകടസാധ്യതയ്ക്ക് മുൻഗണന നൽകുന്നു തുടർന്ന് കൂടുതൽ ആസൂത്രണം ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കും മൂന്നാമത്തെ വശം റോളുകൾ സജ്ജീകരിക്കുക നിങ്ങൾ സ്വയം എങ്ങനെ സംഘടിപ്പിക്കുന്നു ഒരു ശ്രേണിപരമായ പ്രക്രിയ എന്താണെന്ന് മനസിലാക്കുക ഈ റോളുകളും ഉത്തരവാദിത്തങ്ങളും ഓരോന്നും മനസ്സിലാക്കുന്നത് എന്താണെന്ന് ഞങ്ങൾ സംസാരിക്കുന്നു ദുരന്തത്തിനു മുമ്പുള്ള ആസൂത്രണം പ്രതീക്ഷിച്ചതിന് തയ്യാറെടുക്കുക ക്ഷമിക്കണം ഇവിടെ അക്ഷരപ്പിശകാണ് പ്രതീക്ഷിച്ചതും പ്രതീക്ഷിക്കാത്തതും തയ്യാറാക്കുക അങ്ങനെയാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ ആശ്വാസത്തിലും പരിവർത്തനത്തിലും പ്രാദേശിക ശേഷിയെ തുരങ്കം വയ്ക്കരുത് കാരണം എല്ലായ്പ്പോഴും ദുരിതാശ്വാസ ഘട്ടത്തിലാണ് ഈ ആളുകൾക്ക് അവരെ സഹായിക്കാൻ ഞങ്ങളുടെ പക്കലുള്ള ഒന്നും അറിയില്ലെന്ന് വ്യക്തമായും അവരെ ദുർബലപ്പെടുത്തുന്നു എന്നുമാത്രമല്ല നമുക്ക് എങ്ങനെ ചെയ്യാമെന്നും ഉണ്ട് അവരുടെ ആശ്വാസം എന്താണെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ടോ ഞാൻ ഉദ്ദേശിച്ചത് ക്യാപസിറ്റിയാണ് അവർക്ക് എങ്ങനെ സ്വയം നിർമ്മിക്കാൻ കഴിയും ഭൂതകാലത്തിൽ നിന്ന് പഠിക്കുക അടിയന്തിരാവസ്ഥയിൽ നമ്മൾ ചിലപ്പോഴൊക്കെ അവഗണിക്കുന്ന പഠനങ്ങൾ എന്തൊക്കെയാണ് പുനർനിർമ്മാണ ഘട്ടത്തിൽ നമ്മൾ പരിവർത്തന പ്രക്രിയ മനസ്സിലാക്കേണ്ടതുണ്ട് പരിവർത്തന പ്രക്രിയ മനസ്സിലാക്കുക ആളുകളെ കേന്ദ്രത്തിൽ ഉൾപ്പെടുത്തുകയും വിലയിരുത്തുകയും ചെയ്യുക കെട്ടിട കോഡുകളിൽ ഞങ്ങൾ സ്പർശിച്ച പ്രധാന പോയിന്റുകൾ ഉണ്ട് കോഡുകളുടെ അഭാവം നിയന്ത്രണ പ്രക്രിയയുടെ അഭാവം എന്നാൽ നിങ്ങൾ വളരെ ഉപരിപ്ലവമായ ഒരു സർവേ നടത്തുന്നില്ലെന്ന് ഉറപ്പാക്കുക കാരണം റിപ്പോർട്ടുകളിൽ പലതും അക്കങ്ങളെ മാത്രം ചൂണ്ടിക്കാണിക്കുന്നു നമ്മൾ എത്ര വീടുകൾ നിർമ്മിച്ചു പക്ഷേ അത് എങ്ങനെ പൊരുത്തപ്പെട്ടു എന്ന് നോക്കണം അത് എങ്ങനെ വിജയിച്ചു അതിനാൽ ഇത് ഞങ്ങൾ എടുത്തുകളയുന്ന ഒരു കാര്യമാണ് പിന്നെ ആശയവിനിമയം ആശയവിനിമയം നടത്തുക യഥാർത്ഥത്തിൽ പഠിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുക വിദ്യാഭ്യാസ കാഴ്ചപ്പാടിൽ പോലും ആശയവിനിമയത്തിൽ യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങൾ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ തയ്യാറെടുക്കുന്നതിനാൽ വിദ്യാർത്ഥികളിൽ പോലും ഞങ്ങൾ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് അതിനാൽ നിങ്ങൾ അത് ആ സമീപനത്തിൽ എടുക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുക അത് ഞങ്ങളുടെ കോഴ്സിന്റെ അവസാനമാണെന്ന് ഞാൻ കരുതുന്നു ഓരോ പങ്കാളിക്കും അവരുടെ അത്ഭുതകരമായ പങ്കാളിത്തത്തിന് ഞാൻ നന്ദി പറയുന്നു തുടർന്നുള്ള കോഴ്സുകളിൽ നിങ്ങളെ കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വളരെയധികം നന്ദി